നമസ്കാരം ക്ലൌഡ് കംപൂട്ടിങ്ങിന്റെ ഉപയോഗിക്കുന്നു പക്ഷെ ഇപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നു കാര്യപ്രാപ്തിയോടെ ലോകത്തിൽ പല ശാസ്ത്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ മാപ്റെഡ്യൂസ് ചെയ്യുന്നതിനും ആണ് അവയെ തയാറാക്കിയിരിക്കുന്നത് വളരെ വലിപ്പമുള്ള ഡേറ്റയെ സമാന്തര കംപ്യൂടേഷൻ വഴി പതിനായിരക്കണക്കിന് പ്രോസസറ്കൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ് ചെയ്യാനും ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ എന്റെ കൈയിൽ ഒരുപാട് പ്രോസസ്സറുകളും ആണ് അങ്ങനെ വരുമ്പോൾ ഇത് ഫോൾട്ട് ടോളറന്റ് സൂക്ഷിക്കുന്നത് അത് HDFS ആകാം GFS ആകാം അല്ലെങ്കിൽ അവയെ കൈകാര്യം ചെയ്യുന്നത് ബിഗ് ടേബിൾ പോലുള്ളവ ആകാം നമ്മൾ നേരത്തെ പഠിച്ചതു വച്ചു നോക്കുകയാണെങ്കിൽ സമാന്തര കംപ്യൂട്ടിങ്ങിന് പല തരത്തിൽ ഉള്ള മോഡലുകൾ ആണ് അതിനെ നമ്മൾ വിതരണം ചെയ്തിരിക്കുന്നു ഇതു രണ്ടുമാണ് ഇവിടുത്തെ പ്രശസ്തമായ കാര്യങ്ങൾ സമാന്തര കംപ്യൂട്ടിങ്ങ് നമ്മൾ ഭീകരമായ ശാസ്ത്രീയ ജോലികൾ ചെയ്യുവാനായി ഉപയോഗിക്കുന്നു തുടക്കത്തിൽ ഇതിനെ വലിയ ശാസ്ത്രീയ ജോലികൾ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇപ്പോൾ ഡേറ്റാബേസ് ഡൊമൈനിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് അത് ഷെയേഡ് മെമ്മറിയാണോ ഷെയേഡ് ഡിസ്ക് ആണോ അതോ ഷെയേഡ് നത്തിംഗ് ആണോ എന്ന് ഈ ഒരു ചിത്രം നമ്മൾ നേരത്തെ കണ്ടതാണ് ഒന്നു കൂടി ഞാൻ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇത് ഷെയേഡ് മെമ്മറി ഇത് ഷെയേഡ് ഡിസ്ക് ഷെയേഡ് നത്തിങ്ങ് പക്ഷെ ഇവിടെ നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചു വ്യത്യസ്ഥമാണ് ഇതിൽ കുറച്ചു കൂടി കാര്യങ്ങൾ പറയുവാൻ ഉണ്ട് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിന് രൂപഘടനകളെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഷെയേഡ് മെമ്മറി ഒരുപാട് CPU കൾ ഉള്ള സർവറുകളിൽ ആണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ഷെയേഡ് നത്തിങ്ങിൽ ആണെങ്കിൽ ഒരു കൂട്ടം സ്വതന്ത്രമായ സർവറുകൾ ഒരോന്നിൽ നിന്നും ഓരോ ഹാർഡ് ഡിസ്ക് അങ്ങനെയുള്ളവ വച്ചിട്ടാണ് ഇവിടെ ഈ സമാന്തര കംപ്യൂട്ടിങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കാര്യക്ഷമത കൂട്ടുക എന്നുള്ളതാണ് അല്ലെ മറ്റു കാര്യങ്ങളും ഉണ്ട് അതായത് ഫോൾട്ട് ട്ടോളറൻസ് ഫുൾ പ്രൂഫ് ഉണ്ടാവണം ഇൻഹരന്റ് പാരലലിസം ഇല്ലെങ്കിൽ ഇവിടെ സമാന്തര ആർകിടെകച്ചറർ ഉപയോഗിക്കുന്നതു കൊണ്ട് ഗുണമില്ല ഒരു ഇൻഹെരന്റ് പാരലലിൽ തുടർച്ചയായിട്ടുള്ള ഓപ്പറേഷനുകൾ ഉണ്ടാക്കുവാൻ പാടില്ല അതായത് ഒന്നാമത്തെ ജോലി രണ്ടാമത്തെ ജോലി മൂന്നാമത്തെ നാലാമത്തെ അങ്ങനെ പറഞ്ഞ് തുടർച്ചയായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും പക്ഷേ പാരലൽ ഓപ്പറേഷനിൽ ചെയ്യാൻ പറ്റില്ല ഒരുപാട് സന്ദേശങ്ങൾ പ്രോസസറുകളുടെ ഇടയിൽ ഉണ്ടാകുന്നതും പ്രോസസറുകൾക്ക് വിതരണം ചെയ്യുന്ന ജോലിയിൽ വ്യതിയാനം വരികയും ചെയ്യുന്നത് ഈ പാരലൽ ആയിട്ട് ഉപയോഗിക്കുന്നതിന്റെ കാര്യക്ഷമതയില്ലായ്മ കൂട്ടുന്നു ഈ അൽഗോരിതത്തിന്റെ ആണെങ്കിൽ നമുക്ക് പറയാം സ്കെയിലബിൾ പാരലൽ എഫിഷ്യൻസി എന്ന് അത് ഡേറ്റയുടെ വലുപ്പം കൂടിയാലും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും അതിന്റെ കൂടെ പ്രോസസറിന്റെ എണ്ണവും കൂടും അപ്പോൾ കൂടുതൽ ഡേറ്റ വരുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ പ്രോസസറിനെ ഉപയൊഗിക്കാം അല്ലെങ്കിൽ ക്ലൌഡിനോട് കൂടുതൽ പ്രോസസറുകൾ വേണമെന്ന് ആവശ്യപ്പെടാം അപ്പോൾ കാര്യക്ഷമത കോൺസ്റ്റന്റായി ആയി ഇതിനെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ കാര്യക്ഷമത കോൺസ്റ്റന്റായി തന്നെ നിൽക്കും ഒരു പ്രത്യേക എണ്ണത്തിൽ ഉള്ള പ്രോസസറന്റെ കൂടെയുള്ള ഡേറ്റ കൂടുകയാണെങ്കിൽ കാര്യക്ഷമത കൂടും നമ്മൾ നോക്കുന്ന പുസ്തകങ്ങളിൽ ഇതു പോലത്തെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇവിടെ അപ്പോൾ വളരെ വലിയ ഒരു ഡോക്യമെന്റ് ഇത് ആവശ്യം വന്നു എന്നിരിക്കും ഇത് നമുക്ക് അപ്പോൾ രണ്ടു രീതിയിൽ ചെയ്യുവാൻ പറ്റും ആദ്യത്തെത് ഓരോ പ്രോസ്സസറും എം ഉപയോഗിക്കേണ്ടിവരും അപ്പോൾ ഇത് ഈ കാര്യം ചെയ്യുന്നു എന്നിട്ട് അവസാനം ഇത് എന്തായി എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ അതിനെ സിസ്റ്റത്തിലുടെ കാണിക്കുന്നു മറ്റൊരു രീതി എന്നത് ഓരോ പ്രോസസറുകളും എം വാക്കുകളുടെ ഫ്രീക്വൻസി എൻ ഭാഗം പി ഡോക്യൂമെന്റുകളിലൂടെ കണ്ടു പിടിക്കുന്നു അപ്പോൾ ഇവിടെ ഡോകുമെൻസ് മൊത്തം 10000 ഉണ്ട് എന്ന് കരുതുക അപ്പോൾ 10000 പിന്നെ മൊത്തം ഉള്ള വാക്കുകൾ 90 മൊത്തമുള്ള പ്രോസസറുകൾ 10 അപ്പോൾ 90 ഭാഗം 10 എന്നത് 9 വാക്കുകൾ വരും ഓരോ പ്രോസസറിനും വേറൊരെണ്ണം എന്താണെന്നുവെച്ചാൽ ഓരോ പ്രോസസറിനും ഈ 90 വാക്കുകളുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതാണ് പക്ഷേ n ഭാഗം p ഡോക്യുമെന്റിലാണ് ഇപ്പോൾ 10000 വാക്കുകൾ ഉണ്ട് 10 പ്രോസസറുകൾ ഉണ്ട് എന്ന് കരുതുക അതിലെ 1000 ഡോക്യുമെന്റ് അല്ലെങ്കിൽ 100 ഡോക്യുമെന്റ് അതിൽ നമ്മൾ പ്രോസസിങ് നടത്തുന്നു അവിടെനിന്ന് ഈ m വാക്കുകളുടെ ഫ്രീക്വൻസി ഓരോ പ്രോസസറും തരുന്നതിനെ ഞാൻ കൂട്ടിവയ്ക്കുന്നു എന്നിട്ട് മൊത്തമായിട്ടുള്ളത് കാണിക്കുന്നു അപ്പോൾ ഇതിൽ ഏതാണ് പാരലൽ കമ്പ്യൂട്ടിംഗ് പാരാഡിമ്മിന് അടിസ്ഥാനമായിട്ട് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ളത് പാരലൽ കമ്പ്യൂട്ടിങ്ങിനെ ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി മോഡൽ ആയിട്ട് ഷെയർ ഡിസ്കിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോ പ്രോസസറിനും ഡിസ്കിലുള്ള ഡോക്യുമെന്റ് ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റും സ്പർദ്ധ ഇല്ലാതെ ഇത് ഇമ്പ്ലിമെന്റഷൻ മെക്കാനിസം ആണ് ഇനി ഡോക്യൂമെന്റിൽ നിന്ന് ഓരോ വാക്കുകൾ വായിക്കുന്ന സമയവും ഇൻറ്റർ പ്രോസസർ കമ്യൂണിക്കേഷൻ ക്ക് തുല്യമാണ് യഥാർത്ഥ ജീവിതത്തിൽ ഇത് സാധ്യമാകണമെന്നില്ല പക്ഷേ നമുക്ക് ഇവിടെ ഇങ്ങനെ അനുമാനിക്കാം ഇവിടെ ആദ്യത്തെ രീതി എന്താണ് എന്നു വച്ചാൽ ഈ മൊത്തം ഫ്രീക്വൻസി കൂട്ടാൻ എടുക്കുന്ന സമയം നമുക്ക് തുശ്ചമായി കരുതാം അപ്പോൾ ഈ എം വാക്കുകളുടെ ഫ്രീക്വൻസി കണ്ടു പിടിക്കാൻ എടുക്കുന്ന സമയം തുശ്ചമായി വയ്ക്കുകയാണ് ഓരോ വാക്കുകളും എഫ് പ്രാവശ്യം ഒരു ഡോക്യൂമെന്റിൽ ഏകദേശം വരുന്നു എന്നു കരുതുക മൊത്തം എം ഫ്രീക്വൻസികളെയും ഒരു പ്രോസ്സസർ കണക്കു കൂട്ടി എടുക്കാൻ എടുക്കുന്ന സമയം എന്നത് എൻ ഗുണം എം ഗുണം എഫ് ഗുണം സി ആണ് അപ്പോൾ ഇതാണ് എം ഫ്രീക്വൻസികളെ ഒരു പ്രോസ്സസർ കൊണ്ട് കണക്കാക്കി എടുക്കുന്ന സമയം നമ്മുടെ ആദ്യത്തെ സമീപനം ഇതു വച്ച് നോക്കുകയാണെങ്കിൽ ഓരോ പ്രോസ്സസറിനും എം ഭാഗം പി വാക്കുകളുടെ ഫ്രീക്വൻസികൾ കണക്ക്ക്കുട്ടി എടുക്കണം ഇതാണ് ആദ്യത്തെ സമീപനം ഇവിടെ അപ്പോൾ ഓരോ പ്രോസസറും ഏറ്റവും കൂടുതൽ ആയിട്ട് m ഗുണം n ഗുണം f ഭാഗം p പ്രാവശ്യം വായിക്കുന്നു പാരലൽ എഫിഷ്യൻസി നമ്മൾ കണക്കുകൂട്ടുമ്പോൾ nfmc ഭാഗം pnmfc ആയിട്ടു വരും അതായത് 1 ഭാഗം p അത് വാനില എന്ന തരത്തിൻറെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ എല്ലാവരും ഏകദേശം ഒരേ ഫ്രീക്വൻസിയിൽ ആണ് ചെയ്യുന്നത് എന്ന് കരുതുന്നു കൂട്ടി വയ്ക്കാനുള്ള സമയം നമ്മൾ തുച്ഛമായി കരുതുകയാണ് വായിക്കാനും എഴുതാനും എടുക്കുന്ന സമയത്തെ നമ്മൾ c ആയി കരുതുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ 1 p ആയിട്ടു വരും p യുടെ മൂല്യം കൂടുമ്പോൾ എഫിഷ്യൻസി കുറയും അപ്പോൾ ഇത് കോൺസ്റ്റന്റ് അല്ല സ്കെയിലബിൾ അല്ല ഇതാണ് ഇവിടെ മറ്റൊരു വലിയ പ്രശ്നം ഓരോ പ്രോസസറുകൾക്കും n ഭാഗം m വാക്കുകളുടെ ഫ്രീക്വൻസി കൂട്ടണം അത് സ്കെയിലബിൾ അല്ല n ഭാഗം m വാക്കുകൾ സ്കെയിലബിൾ അല്ല രണ്ടാമത്തെ സമീപനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡി എന്ന ഡോക്യുമെന്റിനെ നമ്മൾ ഭാഗിക്കുകയാണ് അപ്പോൾ ഓരോ പ്രോസ്സസറുകൾക്കും എല്ലാ എം വാക്കുകളെയും കണക്കുകൂട്ടാനും കൂട്ടിവയ്ക്കുവാനും പറ്റും ഇത് നോക്കുമ്പോൾ നമുക്ക് വില കൂടിയതാണെന്ന് തോന്നും കാരണം ഇവിടെ കൂട്ടിവയ്ക്കലും ക്ലബിങ്ങും പ്രോസ്സസറുകളുടെ ക്ലബിങ്ങും ഉണ്ട് ക്ലബ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എം ന്റെ കൂട്ടങ്ങളെ നമ്മൾ ഭാഗിക്കുകയാണ് പല ഡോക്യൂമെന്റിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഇൻഎഫിഷ്യന്റ് ആയി തോന്നും ഒന്നാമത്തെതിനേക്കാളും ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വായനയുടെ പെർഫോമൻസ് എത്രയാണ് ഓരോ പ്രൊസ്സസറുകൾക്കും എന്നുള്ളത് നമ്മൾ എൻ ഗുണം എം ഗുണം എഫ് ഭാഗം പി എന്നാണ് കണ്ടു പിടികുന്നത് ഇത് വായിക്കുവാൻ എടുക്കുന്ന സമയം എൻ ഗുണം എം ഗുണം എഫ് ഗുണം സി ഭാഗം പി എന്നാണ് കിട്ടുന്നത് കാരണം നമ്മുടെ കൈയിൽ എൻ ഭാഗം പി എന്ന വലിപ്പത്തിലുള്ള ഡേറ്റയാണ് ഉള്ളത് പിന്നെ നമുക്ക് എം ഗുണം എഫ് ഗുണം സി കൂടി കണ്ടുപിടിക്കണം അങ്ങനെ ഈ മൊത്തം വായിക്കാൻ എടുക്കുന്ന സമയം നമുക്ക് കണക്കുകൂട്ടി എടുക്കുവാൻ സാധിക്കും എം വാക്കുകളുടെ പാർഷിയൽ ഫ്രീക്വൻസി എഴുതുവാൻ എടുക്കുന്ന സമയം എം ഗുണം സി ആണ് ഇത് കഴിഞ്ഞതിനുശേഷം നമ്മൾ ഇതിനെ പാരലൽ ആയിട്ട് ഡിസ്കിൽ എഴുതണം അപ്പോൾ m വാക്കുകളുടെ പാർഷ്യൽ ഫ്രീക്വൻസി പാരലൽ ആയിട്ട് ഡിസ്കിൽ എഴുതാൻ എടുക്കുന്ന സമയം c x m ആണ് പാർഷ്യൽ ഫ്രീക്വൻസികളെ p 1 പ്രോസസറുകളുമായി ബന്ധിപ്പിച്ചതിനുശേഷം p യുടെ സബ് വെക്റ്ററുകളെ കൂട്ടി 1 p ആകുന്നു എം വെക്റ്റർ ഫ്രീക്വൻസിയിലോട്ട് ആക്കുന്ന സമയം pxmxcp എന്നാണ് നമ്മൾ ഇവിടെ പാർഷ്യൽ ഫ്രീക്വൻസി ആണ് എടുക്കുന്നത് മൊത്തത്തിലുള്ള ഫ്രീക്വൻസി നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് എടുക്കാത്തത് എടുക്കാൻ ഓരോന്നിലൂടെ നമുക്ക് ഇത് ചെയ്യേണ്ടിവരും ഇതെല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സമീപനത്തിൽ നമുക്ക് കാണാം ഈ പാരലൽ ഫ്രീക്വൻസി ഇവിടുത്തെ രൂപഘടന ആകും അപ്പോൾ ഒന്ന് ഭാഗം ഒന്ന് അധികം രണ്ട് ബി ഭാഗം എൻ എം എന്നു വരും പുസ്തകത്തിൽ നിങ്ങൾ കുറച്ചു കൂടി കാര്യമായി നോക്കികഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല പടിപടിയായി ഇത് നോക്കുക ഇവിടെ മറ്റൊരു ആകർഷയമായ കാര്യം എന്താണെന്നു വച്ചാൽ നമ്മുടെ കൈയിൽ ഇപ്പോൾ ഉള്ളത് ഒന്ന് അധികം രണ്ട്ബി ഭാഗം എൻ എം ആണ് ഈ അവസ്ഥയിൽ പി എന്നത് എൻ എഫിനെക്കാൾ ഒരുപാട് ഒരുപാട് ചെറുതാണ് അപ്പോൾ രണ്ടാമത്തെ സമീപനത്തിൽ ആണ് കാര്യക്ഷമത കൂടുതൽ ആയിട്ട് ഉള്ളത് കാരണം ഇവിടെ പി ഒരുപാട് എൻ എഫിനെക്കാൾ ചെറുതാവുമ്പോൾ ഈ ഒരെണ്ണം ഒന്ന് ആയിട്ടു മാറുന്നു അതുകൊണ്ട് ഇത് മറ്റെതിനേക്കാൾ കുറച്ചു കൂടി കാര്യക്ഷമത ഉള്ളതായി കാണുവാൻ സാധിക്കുന്നു ആദ്യത്തെ സമീപനത്തിൽ പ്രോസ്സസറുകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വാക്കുകളെ വായിക്കേണ്ടി വരുന്നതിനാൽ സമയം നഷ്ടം വരുന്നു അവിടെ നമ്മൾ എംമിനെ പല ചങ്കുകളായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ എടുത്തത് അനുസരിച്ച് എം 90 ആണ് പ്രോസ്സസറുകൾ പി ആണ് അപ്പോൾ 90 ഭാഗം പത്ത് ആണ് എല്ലാവർക്കും 10 വീതം കിട്ടുന്നു അപ്പോൾ മൊത്തം ഡോക്യുമെന്റുകളെ ഇത് തിരഞ്ഞു നോക്കുമ്പോൾ ഒന്നിലും എത്തുന്നില്ല കാരണം ഒരുപാടു ഡോക്യൂമെന്റുകൾ ഉണ്ട് അപ്പോൾ ഇവിടെ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നില്ല രണ്ടാമത്തെ സമീപനത്തിൽ എല്ലാ വായനയും ഉപയോഗപ്രദമാണ് അവ കണക്ക് കൂട്ടുകയും അവസാനത്തെ ഫലത്തെ വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഇത് സ്കെയിലബിളും ആണ് ഇവിടെ എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും n ഉം p യും പ്രൊപോഫഷണലായിട്ട് കൂടുമ്പോൾ എനിക്ക് പ്രോസസറുകളുടെ എണ്ണവും കൂട്ടണം അപ്പോൾ ഡേറ്റപ്രോസസർ കൂട്ടുകയാണെങ്കിൽ എഫിഷ്യൻസി കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും രണ്ടാമത്തെ സമീപനത്തിൽ എഫിഷ്യൻസി 1 ആകാൻ നോക്കും ഒരു പ്രത്യേക p യിൽ എന്നിട്ട് പതുക്കെ n ൻറെ മൂല്യം കൂടും പ്രോസസറുകളുടെ എണ്ണം മാറ്റാതെ വെക്കണം എന്നിട്ട് n നെ പതുക്കെ കൂട്ടണം അതിന്റെ അർത്ഥം നമ്മൾ ഡേറ്റയുടെ ലോഡിനെ കൂട്ടുകയും പ്രോസസറിന്റെ എണ്ണം മാറ്റാതെ വയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് 1 ആയിട്ട് വരും ഇതിൻറെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഓരോന്നിനെയും കൈകാര്യം ചെയ്യുന്നതിനു ശേഷം അവയെ കൂട്ടി വയ്ക്കുന്നത് ആയിരിക്കും കൂടുതൽ എഫിഷ്യന്റ് എന്ന് ഇനി നമുക്ക് മാപ്പ്റെഡ്യൂസ് മോഡൽ നോക്കാം ഇത് ഒരു പാരലൽ പ്രോഗ്രാമിംഗ് അബ്സ്ട്രാക്ഷൻ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് പലതരത്തിലുള്ള മാപ്പർ പ്രോസസറുകൾ ഉണ്ട് അതുപോലെതന്നെ റെഡ്യൂസർ പ്രോസസറുകളും ഉണ്ട് ഈ മൊത്തം പ്രോസസറുകളെ എനിക്ക് രണ്ടായി ഭാഗിക്കാൻ സാധിക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ മാപ്പർ പ്രോസസറുകളും ഉണ്ട് പലതരത്തിലുള്ള റെഡ്യൂസർ പ്രോസസറുകളും ഉണ്ട് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുവച്ചാൽ ഡേറ്റ ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ച് എക്സിക്യൂഷൻ അതിനർത്ഥം നിങ്ങൾക്ക് കൂടുതൽ മാപ്പറും റെഡ്യൂസറും ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ മാപ്പ് റെഡ്യൂസ് ഫെയ്സ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മാപ്പർ ഗ്ലോബൽ ഫയലിൽ ജോഡിയെ മറ്റൊരു കൂട്ടം കീ വാല്യൂ ജോഡി ആയി മാറ്റുകയാണ് അപ്പോൾ മാപ്പിൽ K1V1 എന്നതിനെ നമ്മൾ K2V2 ആക്കുന്നു ഓരോ മാപ്പറുകളും ഒരു കംപ്യൂട്ടേഷണൽ ഫലം ഓരോ റെഡ്യൂസറിന്റെ ഫയലിനും എഴുതുന്നു ഇത് എന്താണ് അപ്പോൾ ചെയ്യുന്നത് ഓരോ റെഡ്യൂസറും ഫയലിനെ ഉണ്ടാക്കുന്നു ഇവിടെ അപ്പോൾ R1R2R3 എന്ന റെഡ്യൂസറുകൾ ഉണ്ടെങ്കിൽ മാപ്പർ m ആയി മൂന്നു ഫയലുകളെ ഉണ്ടാക്കുന്നു റെഡ്യൂസറുമായി ബന്ധമുള്ളത് ഈ ഫയലുകളെ നമ്മൾ കീയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നത് എന്നിട്ട് അവയെ ലോക്കൽ ഫയൽ സിസ്റ്റത്തികനത്തു സൂക്ഷിക്കുന്നു മാസ്റ്റർ ഈ ഫയലുകളുടെ ലോക്കേഷനെ നോക്കി വയ്ക്കുന്നു അപ്പോൾ ഇവിടെ ഒരു മാപ്പ് റെസ്യൂസ് മാസ്റ്റർ ഉണ്ട് അതാണ് ഈ ഫയലുകളുടെ ലൊക്കേഷൻ നോക്കി വയ്ക്കുന്നത് ഓരോ മാപ്പറും ഓരോ റെഡ്യൂസറിനായി ഒരു ഫയൽ തയ്യാറാക്കുന്നു ഈ മാസ്റ്റർ ലോക്കൽ ഡിസ്കിൽ എവിടെയാണ് ഫയൽ സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുന്നു റെഡ്യൂസ് ഫെയ്സിനകത്താണെങ്കിൽ മാസ്റ്റർ റെഡ്യൂസറിന് പാർഷ്യൽ കമ്പ്യൂട്ടേഷൻ ഓരോ മാപ്പറിന്റേയും എവിടെയാണ് ലോക്കൽ ഫയൽ സിസ്റ്റത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അതിനർത്ഥം റെഡ്യൂസർ കേസിൽ റെഡ്യൂസർ മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നു ഓരോ മാപ്പർ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു റെഡ്യൂസർ പ്രൊസീജർ കോളുകൾ മാപ്പറിലോട്ട് കൊടുത്ത് ഫയലുകൾ എടുക്കുന്നു മാപ്പർ ഡിസ്കിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇവിടെ പല രൂപഘടനകളും പല തരത്തിലുള്ള VM കളും ആയിരിക്കും ഉണ്ടാകുക അത് ഒരുപാട് ദൂരത്തല്ല അപ്പോൾ കാര്യങ്ങൾ അതുപോലെ നടക്കണമെന്നില്ല അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന പ്രത്യേക ഡേറ്റയെ മാപ്പർ ആയിരിക്കണം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോ റെഡ്യൂസറും മാപ്പിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളെ വേർതിരിച്ചെടുക്കുന്നു അതിനുവേണ്ടി അവർ കീ വാല്യൂ ഫംഗ്ഷൻ f ഉപയോഗിക്കുന്നു അപ്പോൾ K2 V2 അങ്ങനെയൊക്കെ വരും ഇവിടെയാണ് കൂട്ടിച്ചേർത്ത ഫങ്ഷനുകൾ ഗുണം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ചോദ്യം ഓർക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ഡോക്യുമെന്റുകൾ ഉണ്ട് അതിലുള്ള എല്ലാ വാക്കുകളുടെയും ഫ്രീക്വൻസി നമുക്ക് കൂട്ടണം അപ്പോൾ ഇവിടത്തെ ഫംഗ്ഷണൽ മോഡൽ എന്നുള്ളത് ഈ ഫ്രീക്വൻസികളെ കൂട്ടുക എന്നുള്ളതാണ് അത് ഓരോ തരങ്ങൾക്കും വ്യത്യസ്തമാണ് അത് K2 വിനെ V ആക്കുന്നു അങ്ങനെ അങ്ങനെ അടുത്ത കീ മൂല്യത്തിലോട്ട് പോകുന്നു അവസാനത്തെ ഫലം GFS ഗൂഗിൾ ഫയൽ സിസ്റ്റത്തിലോട്ടു വരുന്നു ഇനി മാപ്പ് റെഡ്യൂസിന്റെ ഉദാഹരണം നമ്മളുടെ കയ്യിൽ മൂന്നു മാപ്പറും രണ്ട് റെഡ്യൂസറുകളും ഉണ്ട് മാപ്പ് ഫംഗ്ഷൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ D എന്ന ഡേറ്റക്കകത്ത് ഒരു കൂട്ടം വാക്കുകൾ ഉണ്ട് W1W2Wn അങ്ങനെ ഓരോ Wi യേയും ഇവിടെ കൂട്ടുകയാണ് എണ്ണുന്നതിന്റെ എത്ര ഭാഗമാണ് മാപ്പറിനുള്ളത് ഓരോ Wi യേയും ഇവിടെ കൂട്ടുകയാണ് ഇവിടെ D1 ൽ നോക്കുകയാണെങ്കിൽ അതിന് W1 W2 W4 ഉണ്ട് D2ന് ഇത്രയും കാര്യങ്ങൾ ഉണ്ട് ഓരോ മാപ്പറും ഇത് ചെയ്യുന്നു എന്നിട്ട് അതിനെ ഇൻറർ മീഡിയേറ്റ് സ്പേസിൽ സൂക്ഷിച്ചുവെക്കുന്നു അവിടെനിന്നാണ് റെഡ്യൂസർ ഇത് വായിക്കുന്നത് അത് എല്ലാ റെഡ്യൂസറിനും എല്ലാ ഫയലുകളും തയ്യാറാക്കുന്നു ഇവിടെ രണ്ടു റെഡ്യൂസ്റുകൾ ആണുള്ളത് അപ്പോൾ ഈ രണ്ടു റെഡ്യൂസ്സറിനും വേണ്ടി മാപ്പർ ഫയലുകൾ തയാറാക്കുന്നു റെഡ്യൂസർ ഇവയെ എല്ലാം കൂട്ടി വക്കുന്നു ദാ ഇവിടെ നമ്മുടെ കൈയിൽ w എന്നത് w 1 w2 അങ്ങനെയെല്ലാം ഉണ്ട് w1നെ 7 W 2നെ 15 ആക്കി വക്കുക നമ്മുടെ കൈയിൽ w3 യും W4 ഉം കൂടി ഉണ്ട് റെഡ്യൂസർ ഇവിടെ ചെയ്യുന്നത് മാപ്പറിന്റെ അവുട്ട്പുട്ട് അതായത് മാപ്പറിൽ നിന്നും കിട്ടുന്ന ഇൻപുട്ടുകളുടെ വലിപ്പം ഇവിടെ കുറക്കുകയാണ് മാപ്പ് റെഡ്യൂസിൽ ഫോൾട്ട് ടോളറൻസ് ഉണ്ട് അതിനെ പലരീതിയിൽ നമ്മൾക്ക് നോക്കാം ഒന്ന് ഹാർട്ട് ബീറ്റ് മെസ്സേജ് ചെയ്യുകമാത്രമാണ് വേണ്ടത് ഇനി മാപ്പ്റെഡ്യൂസിന്റെ എഫിഷ്യൻസി നോക്കാം സാധാരണയായി കണക്കുകൂട്ടാൻ വേണ്ടിയുള്ള ഒരു ജോലി ആണെങ്കിൽ ഇവിടെയുള്ള ഡേറ്റയുടെ വലിപ്പം നമ്മൾ d ആയിട്ട് എടുക്കുന്നു ഒരു യൂണിപ്രോസസറിന് ആക്കി മാറ്റുന്നു

മാപ്പ് സ്റ്റേജിൽ മാപ്പിംഗ് സമയം cmD ആണ് ഡേറ്റയെ ഔട്ട്പുട്ട് ആക്കി ഉണ്ടാക്കുന്നതിന് റൊ D ആണ് റെഡ്യൂസ് സ്റ്റേജിനകത്ത് റെഡ്യൂസിംഗ് സമയം cr റൊ d ആണ് അതേസമയം ഡേറ്റയെ ഔട്ട്പുട്ട് ആയി ഉണ്ടാക്കുന്നതിന് സിഗ്മ മ്യൂ D ആണ് വരിക ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ ഇനി വേറെ കൂടുതലായിട്ട് ഒന്നും വരില്ല എന്നുണ്ടെങ്കിൽ ജോലിയെ മുറിച്ച് നമ്മൾക്ക് റെഡ്യൂസ് സ്റ്റേജ് മാപ്പ് സ്റ്റേജ് ആക്കി മാറ്റാൻ സാധിക്കും എന്നിട്ട് ഈ ഒരു ബന്ധം നമുക്ക് എഴുതി വയ്ക്കാം നമുക്ക് ഇങ്ങനെ ഇവയെ കൂട്ടാവുന്നതാണ് ഇനി p പ്രോസസറുകൾ മാപ്പർ ആയിട്ടും റെഡ്യൂസർ ആയിട്ടും ജോലി ചെയ്യുകയാണെങ്കിൽ അവയെ നമുക്ക് ചില സമയത്ത് മാപ്പർ ആയിട്ടും മറ്റു ചില സമയത്ത് റെഡ്യൂസർ ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓരോ മാപ്പറിനും ലോക്കൽ ഡിസ്കിലോട്ട് എഴുതുന്നു അതിനുശേഷം റെഡ്യൂസർ അതിനെ ഡിസ്കിൽ നിന്ന് വായിക്കുന്നു അനാലിസിസ് നടത്താനുള്ള സമയം എന്നത് ഈ വാക്കിനെ ലോക്കൽ വായിക്കുന്നതാണ് ഡിസ്കിൽ നിന്നുള്ള ഡേറ്റയെ വായിക്കാൻ എടുക്കുന്ന സമയം മാപ്പറിനു വേണ്ടത് wdഎത്ര പ്രോസസറുകൾ ആണ് എന്നുള്ളതാണ് അതായത് WD p എന്നതാണ് മാപ്പറിലെ ഡേറ്റാ പ്രൊഡ്യൂസർ എന്നത് റൊ Dp ആണ് ഇനി തിരിച്ച് ഡിസ്കിലേക്ക് എഴുതാൻ എടുക്കുന്ന സമയം അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഇതിനെ ഡിസ്കിൽ നിന്നു വായിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കണക്കുകൂട്ടിയതിനു ശേഷം തിരിച്ച് എഴുതണം അതുപോലെ പി മാപ്പറുകൾ വേർതിരിവിൽ നിന്ന് റെഡിയൂസർ വായിച്ചെടുത്ത ഡേറ്റാ എന്നത് റോ D ഭാഗം പി ഗുണം പി അതായത് വർഗം പി അപ്പോൾ നമ്മൾ ഇവയെ ഇങ്ങനെ കണക്കു കൂട്ടുകയാണെങ്കിൽ നമുക്ക് പറയുവാൻ പറ്റും മാപ്പ് റെഡിയൂസിന്റെ സമാന്തര കാര്യക്ഷമത എന്നത് ഒന്ന് ഭാഗം ഒന്ന് അധികം 2 സി റോ ഭാഗം w എന്നാണ് എന്ന് ഇങ്ങനെയാണ് നമുക്ക് സമാന്തര കാര്യക്ഷമത കിട്ടുന്നത് ഇനി മാപ് റെഡിയൂസ്സറിന് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ട് അതിൽ ഒന്നാണ് വളരെ വലിയ ഡോക്യൂമെന്റ് ശേഖരത്തിന്റെ ഇൻഡക്സ് ഓരോ വാക്കുകളുടെ ഐ ഡി കളുടെ ജോഡികളെ റെക്കോഡ് ചെയ്യുന്നതും പ്രധാന ജോലിയാണ് ഇവിടെ നമുക്ക് കാണാം wdk w1 തൊട്ട് എൻ വരെയുള്ളവയെ മാപ്പിലൂടെ ഉപയോഗിക്കുന്നത് W 1 തൊട്ട് എല്ലാ വേഡ് കളും dks വരെ ഉപയോഗിക്കുന്നു എനിക്ക് അപ്പോൾ ഇവിടെ ഇൻഡക്സിങ് ചെയ്യുവാൻ സാധിക്കും ഇവിടെ റെഡിയൂസ് എന്ന ഘട്ടം ഓരോ വാക്കുകളുടെ ജോടികളെയും ഗ്രൂപ്പ് ചെയ്യുന്നു എന്നിട്ട് അവയിലേക്ക് എൻട്രി ഉണ്ടാക്കുന്നു മറ്റൊരു ആപ്ലിക്കേഷൻ എന്നത് റിലെഷനൽ ഓപ്പറേഷൻ അനുസരിച്ച് ഉള്ള വേർതിരിക്കൽ ഉപയോഗിക്കാം അങ്ങനെത്തെ റിലേഷനൽ ഓപ്പറേഷനുകൾ എനിക്ക് ഇവിടെ ഉപയോഗിക്കുവാൻ സാധിക്കും ഇതോടെ നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ കണ്ടത് മാപ്പ് റെഡിയൂസറിന്റെ പാരാഡിമിനെ കുറിച്ചാണ് ഒരു പ്രോബ്ളത്തെ എങ്ങനെ പാരലൽ എക്സിക്യൂഷൻ ആക്കി വേർതിരിക്കണം എന്ന് കണ്ടു മാപ്പർ നോഡുകൾ ഇന്റർമീഡിയറ്റ് ഫലങ്ങളും ആണ് തരുന്നത് എന്നും റെഡിയൂസർ നോഡുകൾ ഈ ഡേറ്റ എടുത്തിട്ട് അവസാനത്തെ ഫലം ഉണ്ടാക്കുന്നു എന്നും കണ്ടു മറ്റൊരു ആർഷകമായ കാര്യം ഇവിടെ നമ്മൾ കണ്ടത് എന്താണെന്നു വച്ചാൽ മാപ്പർ ഓരോ റെഡിയൂസറിനും ഡേറ്റാ ഫയലുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ റെഡിയൂസറിന് അറിയാം ഓരോ ഡേറ്റയും എവിടെയാണ് ഉള്ളത് എന്ന് ഇതിന്റെ എല്ലാം മുകളിൽ മാസ്റ്റർ കൺട്രോളർ അല്ലെങ്കിൽ മപ്പ് റെഡിയൂർ മാസ്റ്റർ ഉണ്ട് അവയക്ക് മാപ്പർ ഡേറ്റയെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നും റെഡിയൂസർ എങ്ങനെയാണ് അത് വാങ്ങിക്കുന്നത് എന്നുള്ളതിനെ കുറച്ചും അറിയാം അതു മാത്രമല്ല മാപ്പർ നോട് നിഷ്ഫലമായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ വീണ്ടും സ്ഥാപിക്കേണ്ടത് എന്നും ഇനി റെഡിയൂസർ നോട് ആണ് നിഷ്ഫലമാകുന്നത് എങ്കിൽ അതിനെ എങ്ങനെയാണ് വീണ്ടും സ്ഥാപിക്കേണ്ടത് എന്നും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാത്ത ഡേറ്റയെ അല്ലെങ്കിൽ ഓപ്പറേഷനെ എന്തു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും തീരുമാനിക്കുന്നത് ഇതാണ് ഇതോടെ ഞാൻ ഈ പാഠ ഭാഗം നിറുത്തുകയാണ്